ഇനി ഇതുവരെ നമ്മൾ പഠിച്ച ഫോർവേഡ് കൺവെർട്ടർ സർക്യൂട്ടിന്റെ ഒരു സിമുലേഷൻ നടത്താം ഞാൻ DC DC ഫോൾഡറും ഈ ഫോൾഡറും തുറക്കും സ്കീമാറ്റിക് ഫയലിൽ ഫോർവേഡ് കൺവെർട്ടറിനായുള്ള സ്കീമാറ്റിക് ഇതിനകം ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ഫോർവേഡ് ഡോട്ട് സിർ ഫയലും ഞങ്ങളുടെ ഇഷ്ടാനുസൃത മോഡലുകൾ അടങ്ങുന്ന edt01 sub ഫയലും സൃഷ്ടിച്ചു നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറിനായുള്ള പുതിയ മോഡലുകൾ ഉൾപ്പെടുത്തുന്നതിനായി ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തു ഇനി നമ്മൾ ഈ ഫോർവേഡ് കൺവെർട്ടർ സ്കീമാറ്റിക് തുറക്കുകയാണ് ലോസി കോർ ഫ്ലക്സ് റീസെറ്റ് ഉള്ള ഫോർവേഡ് കൺവെർട്ടർ നിങ്ങൾ സ്ക്രീനിൽ കാണും ഇതിനെ ലോസി എന്ന് വിളിക്കുന്നു കാരണം ഇത് നിങ്ങൾ പഠിച്ച കോർ റീസെറ്റ് സർക്യൂട്ട് ആണ് ഇത് കോറിന്റെ കാന്തിക ഊർജ്ജം ഇല്ലാതാക്കാൻ പോകുന്ന ലോസി റെസിസ്റ്ററാണ് ഇതാണ് പ്രധാനമായും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോർവേഡ് കൺവെർട്ടർ സർക്യൂട്ട് ഇതാണ് പവർ സെമികണ്ടക്ടർ സ്വിച്ച് അത് ഓണാക്കാനും ഓഫാക്കാനും പോകുന്നു ഇതിന് ഒരു PWM ബ്ലോക്കിൽ നിന്ന് ഗേറ്റ് സിഗ്നൽ ലഭിക്കുന്നു കൂടാതെ PWM ബ്ലോക്ക് മൈനസ് 0 1 എന്ന റഫറൻസോടുകൂടിയാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ PWM ബ്ലോക്കിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ PWM ബ്ലോക്കിലെ ഈ ത്രികോണം 1 ൽ നിന്ന് 1 ലേക്ക് പരിവർത്തനം ചെയ്യുന്നുവെന്ന് പറഞ്ഞത് ഓർക്കുക 0 ൽ കൺട്രോൾ സിഗ്നൽ 0 ആണെങ്കിൽ നിങ്ങൾക്ക് 50 ശതമാനം ഡ്യൂട്ടി സൈക്കിൾ ലഭിക്കും കൺട്രോൾ സിഗ്നൽ മൈനസ് 1 ആണെങ്കിൽ നിങ്ങൾക്ക് 0 ശതമാനം ഡ്യൂട്ടി സൈക്കിൾ ലഭിക്കും കൺട്രോൾ സിഗ്നൽ പ്ലസ് 1 ആണെങ്കിൽ അത് 100 ശതമാനം ഡ്യൂട്ടി സൈക്കിളാണ് മൈനസ് 0 1 ൽ ഏകദേശം 40 ശതമാനം ഡ്യൂട്ടി സൈക്കിൾ ആയിരിക്കും അതുകൊണ്ടു BJT സ്വിച്ചിന് നൽകിയിരിക്കുന്ന ഗേറ്റ് ഡ്രൈവ് സിഗ്നൽ ഇതാണ് ഇനി ട്രാൻസ്ഫോർമറിന്റെ ഭാഗത്തേക്ക് വരുകയാണെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമർ മോഡലായ സാധാരണ ട്രാൻസ്ഫോർമറല്ല ഇവിടെ ഒരു സബ് സർക്യൂട്ട് മോഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ സാച്ചുറേഷൻ ഇഫക്റ്റുകൾ പോലും ഒഴിവാക്കാനാകും ഒരാൾക്ക് ഇവിടെ കോർ അധിഷ്ഠിത സ്പൈസ് മോഡൽ ഉപയോഗിക്കാം പക്ഷേ ഇതൊരു സാധാരണ മോഡലാണ് ട്രാൻസ്ഫോർമറിന്റെ ഏത് നല്ല മാതൃകയും ഈ സാമാന്യത നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം ഇതിനകം നിങ്ങൾക്ക് അറിയാവുന്ന സർക്യൂട്ടിന്റെ ഈ ഭാഗം കോർ റീസെറ്റ് ഫ്രീ വീലിംഗ് സർക്യൂട്ട് ആണ് ഇവിടെ റെസിസ്റ്ററും ഡയോഡും ഉണ്ട് ഇത് തീർച്ചയായും ഇൻപുട്ട് ആണ് ഇവിടെ 15 വോൾട്ട് ഡിസി പ്രയോഗിക്കാം ദ്വിതീയ വശത്ത് ഡയോഡ് D1 D2 L C എന്നിവയുണ്ട് ഔട്ട്പുട്ട് വശത്ത് ഒരു ബക്ക് കൺവെർട്ടർ ടോപ്പോളജി കാണാൻ കഴിയും അതിനു ശേഷം ഫലങ്ങളുടെ ഡിസ്പ്ലേയ്ക്കായി ഞാൻ നിങ്ങളോട് ഇതുപോലെ നോഡുകൾ ലേബൽ ചെയ്യാൻ പറഞ്ഞു ഇത് നോഡ് A ഉം ഇത് നോഡ് Q ഉം ആണ് ഇവിടെ നിങ്ങൾക്ക് വോൾട്ടേജ് കാണണമെങ്കിൽ ട്രാൻസ്ഫോർമർ സെക്കൻഡറിയുടെ ഡോട്ട് അറ്റത്ത് ഒരു നോഡ് S ഉണ്ട് ബക്ക് കൺവെർട്ടറിന്റെ പോൾ വോൾട്ടേജിനെ സൂചിപ്പിക്കുന്ന ഒരു നോഡ് P ഉം O ഉം ഉണ്ട് ഔട്ട്പുട്ട് സൈഡ് ഗ്രൌണ്ട് പൊട്ടൻഷ്യലിൽ അല്ലെന്ന് നിങ്ങൾ ഓർക്കണം കാരണം അത് പ്രാഥമിക ഭാഗത്ത് നിന്ന് വേർതിരിച്ചിരിക്കുന്നു നിങ്ങൾ ഇവിടെ ഉള്ള ഒരു സിഗ്നൽ അളക്കാൻ നോക്കുകയാണെങ്കിൽ അത് ഔട്ട്പുട്ട് വശത്തെ ചില പോയിന്റുമായി ബന്ധപ്പെട്ടതായിരിക്കണം നമുക്ക് ഇവിടെ റഫറൻസ് നോഡ് R ഉണ്ട് ദ്വിതീയ വശത്തുള്ള എന്തും ഈ റഫറൻസ് നോഡുമായി ബന്ധപ്പെട്ട് വേണം അളക്കാൻ ദ്വിതീയ വോൾട്ടേജ് കാണാൻ താൽപ്പര്യപ്പെടുമ്പോൾ R മായി ബന്ധപ്പെട്ട് VS ഉം VP ഉം ഉണ്ട് അതായത് VP R VO R എന്നിവ ഈ റഫറൻസ് നോഡുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ ഞാൻ ഇവിടെ ചില സാധാരണ മൂല്യങ്ങൾ ഇട്ടിട്ടുണ്ട് വാസ്തവത്തിൽ ഇവ ബക്ക് കൺവെർട്ടറിനായി ഉപയോഗിച്ച അതേ മൂല്യങ്ങളാണ് കൂടാതെ 10 kHz സ്വിച്ചിംഗ് ഫ്രീക്വൻസിയുള്ള PWM ഉപയോഗിച്ച് ഫോർവേഡ് കൺവെർട്ടറിനായി നിങ്ങൾക്ക് സമാനമായ രീതി ഇവിടെ ഉപയോഗിക്കാം എല്ലാ സിമുലേഷനുകൾക്കുമായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സ്പൈസ് ഉൾപ്പെടുത്തൽ ഇതാണ് ഞാൻ edt01 sub ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രൊഫൈൽ നമുക്ക് സിമുലേറ്റ് ചെയ്യാം ഇപ്പോൾ ഫോർവേഡ് cir എന്ന ഫോൾഡറിലേക്ക് തിരികെ പോകുന്നു ഫോർവേഡ് സിർ ഒരു ക്ഷണികമായ വിശകലന പ്രസ്താവന 0 1 മൈക്രോ സെക്കൻഡ് സ്റ്റെപ്പ് ഉൾക്കൊള്ളുന്നു തുടർന്ന് 10 മില്ലിസെക്കൻഡ് വരെ പ്രാരംഭ വ്യവസ്ഥ കമാൻഡ് ഉപയോഗിക്കുന്നു ഡോട്ടിൽ ഫോർവേഡ് ഡോട്ട് നെറ്റ് forward net ഉൾപ്പെടുന്നു ഫോർവേഡ് ഡോട്ട് നെറ്റ് ജനറേറ്റ് ചെയ്യണം അത് നമ്മൾ ഉടൻ ചെയ്യും ഇനി edt ലേക്ക് പോകാം ഇത് ഇപ്പോൾ edt sub ആണ് ഇതിനകം തന്നെ ഞാൻ വൈദ്യുതകാന്തിക ട്രാൻസ്ഫോർമറിനുള്ള മോഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ വൈദ്യുതകാന്തിക ട്രാൻസ്ഫോർമറിന് പ്രൈമറി ഡോട്ട് പോയിന്റ് പ്രൈമറി നോൺ ഡോട്ട് പോയിന്റ് സെക്കണ്ടറി ഡോട്ട് പോയിന്റ് സെക്കണ്ടറി നോൺ ഡോട്ട് പോയിന്റ് ഡിഫോൾട്ട് പ്രൈമറി നമ്പർ ടേണുകൾ സെക്കൻഡറി നമ്പർ ടേണുകൾ സി എന്നിവയുണ്ട് C ക്യാപസിറ്റൻസ് അല്ല മറിച്ചു പെർമിയൻസ് ആണ് അതിനാൽ കോറിലെ കാന്തിക ഡൊമെയ്നിനുള്ളിൽ പെർമിയൻസ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത് സ്പൈസിനു തത്തുല്യമായ ഘടകം C ആയിരിക്കും അതുകൊണ്ടു നമുക്ക് C കണ്ടുപിടിക്കേണ്ടി വരും കാന്തികത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റൻസ് പെർമിയൻസ് ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മോഡൽ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുതരം സാച്ചുറേഷൻ ഇഫക്റ്റും ഇട്ടിട്ടുണ്ട് ഫ്ളക്സിന്റെ മൂല്യം ഒരു പ്രത്യേക മൂല്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന C യുടെ അതേ മൂല്യം നമുക്ക് എടുക്കാം എന്നാൽ അത് ഒരു പ്രത്യേക സെറ്റ് മൂല്യത്തേക്കാൾ വലുതാണെങ്കിൽ അത് 0 ആയി കുറയാൻ തുടങ്ങും ഇത് കാമ്പിന്റെ BH കർവ് അനുകരിക്കും ഇത് ഒരു കാന്തിക സർക്യൂട്ടിന്റെ പൂരിത തരമാണ് അതിനാൽ യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്ത് ഈ ജനറിക് ട്രാൻസ്ഫോർമർ പ്രവർത്തിക്കുന്നു ഈ ട്രാൻസ്ഫോർമർ ഗൈറേറ്ററുകൾ എന്ന് വിളിക്കുന്ന രണ്ട് മോഡലുകൾ കൂടി ഉപയോഗിക്കുന്നു കൂടാതെ ഗൈറേറ്റർ ഇവിടെ മാതൃകയാക്കിയിരിക്കുന്നു എവിടെയും ഇത് ഒരു കൺട്രോൾ മാഗ്നറ്റിക് ട്രാൻസ്ഫോർമറിന്റെ മാതൃകയാണ് ഇന്റർനെറ്റിൽ ട്രാൻസ്ഫോർമറുകളുടെ നിരവധി മോഡലുകൾ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് അനുയോജ്യമായ എന്തും ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒരുപക്ഷേ സ്പൈസ് നൽകിയ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കാം കൂടാതെ ലീനിയർ ട്രാൻസ്ഫോർമർ പോലും ആശയങ്ങൾ വിശാലമായി പ്രസ്താവിക്കും നിങ്ങൾക്ക് സാച്ചുറേഷൻ നോക്കണമെങ്കിൽ കോർ പൂരിതമാക്കാൻ എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടി വരും sub ഫയലും ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി ngSpice എഞ്ചിൻ ഉപയോഗിച്ച് സിമുലേഷൻ ചെയ്യണം അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ടെർമിനലിലേക്ക് പോകട്ടെ ടെർമിനലിനുള്ളിൽ ഡയറക്ടറിയിലേക്ക് പോകാം ഇപ്പോൾ ഡയറക്ടറിയിലാണ് ഇനി നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാം കൂടാതെ നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷം ngSpice ലേക്ക് വിളിക്കുകയും ചെയ്യും നമുക്ക് ഇപ്പോൾ നെറ്റ് ലിസ്റ്റ് സൃഷ്ടിച്ച് മുന്നോട്ട് പോകാം നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പരിചിതമായ ഈ കമാൻഡ് ഉപയോഗിച്ചാണ് g net list g spice sdb o forward net ജനറേറ്റ് ചെയ്യേണ്ടത് സ്കീമാറ്റിക് ഫയലിന്റെ forward sch ൽ നിന്ന് ആണ് സ്കീമാറ്റിക് ഫയലിൽ നിന്ന് നിങ്ങൾ ഈ കമാൻഡ് നൽകുന്നു ഇപ്പോൾ ഒരു നെറ്റ് ഫയൽ ജനറേറ്റ് ചെയ്തതായി നിങ്ങൾക്ക് കാണാം ഇനി നമുക്ക് ഈ നെറ്റ് ഫയൽ ഉപയോഗിക്കാം ഈ നെറ്റ് ഫയലിനെ forward cir എന്ന് വിളിക്കുന്നു കൂടാതെ ngSpice സിമുലേഷൻ നിർവഹിക്കാൻ കഴിയും ഇപ്പോൾ ngSpice എഞ്ചിനിൽ ngSpice forward cir ഉണ്ട് ഇത് നെറ്റ് ലിസ്റ്റിനൊപ്പം സർക്യൂട്ട് സ്കീമാറ്റിക് ലോഡ് ചെയ്യും ഇപ്പോൾ സിമുലേഷൻ നടത്തുകയും ചെയ്യും ഇതിന് കുറച്ച് സമയമെടുക്കും നിങ്ങൾക്ക് സിമുലേഷൻ സമയം കുറയ്ക്കാൻ കഴിയുന്ന രീതികൾ ഞാൻ പിന്നീട് പറയാം ആദ്യ തവണയുള്ള സിമുലേഷന് അടിസ്ഥാനപരമായി കുറച്ച് സമയമെടുക്കും കാരണം അത് സ്ഥിരതയിലെത്തുന്നത് വരെ നിങ്ങൾ വിപുലമായ ശ്രേണി നൽകുമായിരുന്നു അത് സ്ഥിരമായ അവസ്ഥയിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റഡി സ്റ്റേറ്റിന്റെ മൂല്യം രേഖപ്പെടുത്തുകയും പ്രാരംഭ വ്യവസ്ഥകളായി നൽകുകയും ആ പ്രാരംഭ വ്യവസ്ഥകൾ ഉപയോഗിച്ച് സിമുലേഷൻ നടത്തുകയും ചെയ്യാം സർക്യൂട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന തരംഗ രൂപങ്ങളും കുറച്ച് സൈക്കിളുകളിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ 75 80 ശതമാനം സിമുലേഷൻ പൂർത്തിയായി കുറച്ച് നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ പൂർണ്ണമായ സിമുലേഷൻ പൂർത്തിയാകും ഔട്ട്പുട്ട് പ്ലോട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ Vin ബ്രാക്കറ്റുകൾ ഇടരുത് ഈ R നോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ താൽപ്പര്യമുണ്ടെന്ന് ഓർക്കുക ഇത് Vo കോമ R ആയിരിക്കും ഇവിടെ തിരികെ വരുമ്പോൾ ഇത് ഔട്ട്പുട്ട് തരംഗത്തിന്റെ ആകൃതിയാണെന്ന് നിങ്ങൾക്ക് മനസിലാകും സർക്യൂട്ടിന്റെ മറ്റ് ഭാഗങ്ങളുടെ തരംഗ രൂപങ്ങളുടെ ചില വശങ്ങൾ കൂടുതൽ അന്വേഷിക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊന്ന് നോക്കാം ഇവിടെ ഒരു കറുത്ത പശ്ചാത്തലമുണ്ടെന്നും കറുത്ത പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് വെള്ള ഗ്രിഡും തരംഗ രൂപവും അത് ഇവിടെ വർണ്ണത്തിൽ കാണിക്കുന്നുവെന്നും മനസിലാക്കുക ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു വെളുത്ത പശ്ചാത്തലവും കറുത്ത ഗ്രിഡ് ലൈനുകളും തരംഗ രൂപങ്ങളും നിറവും ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇത് കട്ടറിൽ രേഖപ്പെടുത്തിയാൽ ശരിക്കും ഉപയോഗപ്രദമാകും പുറത്തു വന്ന ഫലത്തിന്റെ സ്ക്രീൻ ഷോട്ട് എടുത്ത് ഒരു ഡോക്യുമെന്റിൽ ഇടുക പശ്ചാത്തലം മാറ്റുന്നതിന് നിങ്ങൾക്ക് എന്തുചെയ്യാനാകുമെന്ന് നോക്കാം നിങ്ങൾക്ക് ഇനിപ്പറയുന്ന കമാൻഡുകളും ഉപയോഗിക്കാം ngSpice മാനുവലിലേക്ക് തിരികെ പോയി ഈ കമാൻഡുകളെക്കുറിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം അതിനാൽ നിറം 0 ഞാൻ ഇപ്പോൾ അത് വെള്ളയായി സജ്ജമാക്കും ഇത് അടിസ്ഥാനപരമായി പശ്ചാത്തല വർണ്ണം സജ്ജമാക്കുന്നു 0 പശ്ചാത്തല വർണ്ണത്തെ പ്രതിനിധീകരിക്കുന്നു ഇവ നിശ്ചയിച്ചിട്ടുള്ള വാക്കുകൾ ആണ് വർണ്ണം 1 എന്നത് മുൻഭാഗത്തെ കറുപ്പിനെ ആണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അതേ പ്ലോട്ട് കമാൻഡ് ബ്ലാക്ക് ഫോർഗ്രൌണ്ടിനൊപ്പം വളരെ അർഹമായ ബ്ലാക്ക് വൈറ്റ് പശ്ചാത്തലത്തിൽ ദൃശ്യമാകും ഇതോടൊപ്പം നമുക്ക് താൽപ്പര്യമുള്ള കുറച്ച് തരംഗ രൂപങ്ങൾ കൂടി നോക്കാം ഇവിടെ ഇൻഡക്റ്റർ കറന്റ് വേവ് ഫോം കാണാൻ പറ്റും നമുക്ക് ഇൻഡക്ടർ കറന്റ് വേവ്ഫോം പ്ലോട്ട് IL നോക്കാം കൂടാതെ ഇൻഡക്ടർ കറന്റ് ത്രികോണ തരംഗ രൂപമാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പിന്നീട് ഇവിടെ 9 5 മില്ലിസെക്കന്റിന് ശേഷം അത് സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുന്നതായി കാണാം ഈ മൂല്യത്തിന് ചുറ്റും നിങ്ങൾക്ക് പ്രാരംഭ അവസ്ഥ നൽകാം അത് നിങ്ങളുടെ സർക്യൂട്ട് പ്രാരംഭ അവസ്ഥയിൽ നിന്ന് സ്ഥിരതയിലേക്ക് വരുന്നത് വേഗത്തിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ട്രെഞ്ചന്റിനോട് താൽപ്പര്യമില്ലെങ്കിൽ സിമുലേഷൻ സമയത്തെ ഹ്രസ്വകാലത്തേക്ക് മാത്രം ചെയ്യാൻ ഇത് വളരെ നല്ല സമീപനമാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പോയിന്റ് ഇവിടെ Vq ആണ് ട്രാൻസിസ്റ്ററിലുടനീളം Vq വോൾട്ടേജിനെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്തിരുന്നു Vq നമുക്ക് ഇത് കുറച്ച് പുതിയ സൈക്കിളുകളിലേക്ക് വികസിപ്പിക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് Ton സമയമാണ് അതായതു on സ്റ്റേറ്റ് ആണ് BJT സ്വിച്ച് ഓഫ് ആകുന്ന നിമിഷം നിങ്ങൾ ഉയർന്ന സ്പൈക്കും തുടർന്ന് കറന്റ് എക്സ്പെണൻഷ്യലായി കുറയുന്നതായും കാണുകയും Vin മൂല്യത്തിലേക്കോ VCC മൂല്യത്തിലേക്കോ പോകുകയും ചെയ്യുന്നു ഇത് ലോസ്സി ഫ്ലക്സ് ആയി മാറുന്നു ഈ എക്സ്പോണൻഷ്യൽ ഡീകെ Lm R സമയ സ്ഥിരാങ്കമാണ് ഇത് കാന്തിക വൈദ്യുതധാരയിലെ ഡീകെ മൂലമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രധാന തരംഗ രൂപമാണിത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന തരംഗ രൂപത്തിന്റെ മറ്റൊരു പ്രധാന പോയിന്റ് ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരകളാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ അതില്ല ഇൻഡക്ടർ ഒരു അവസ്ഥയാണോ അല്ലെങ്കിൽ ഊർജ്ജം സംഭരിക്കുന്ന വേരിയബിൾ ഘടകമാണോ എന്ന് നോക്കുക ഇത് ഒരു റെസിസ്റ്ററോ മറ്റേതെങ്കിലും ശാഖയോ ആണെങ്കിൽ ഇവിടെ ലഭ്യമായ ബ്രാഞ്ച് കറന്റുകളിൽ നിങ്ങൾ സ്വയമേവ കാണില്ല ഒരു സോഴ്സിൽ Vin Vc ബ്രാഞ്ച് ഉണ്ടെങ്കിൽ L ബ്രാഞ്ചിന് മാത്രമേ പ്ലോട്ട് ഔട്ട് ലിസ്റ്റിൽ ബ്രാഞ്ച് കറന്റുകൾ ലഭിക്കുകയുള്ളു സോഴ്സ് ബ്രാഞ്ചിനും nL ബ്രാഞ്ചിനും മാത്രമേ കറന്റുകൾ ലഭ്യമാകൂ എന്ന് നിങ്ങൾ കാണുന്നു ഇനി മറ്റ് വിവിധ പോയിന്റുകളിൽ കറന്റിന്റെ അളവ് എങ്ങനെ കാണും ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് കൂടി തരാം വൈദ്യുതധാരകൾ അളക്കാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം 0 ഉറവിടങ്ങൾ ഇടാം തുടർന്ന് സിമുലേഷനിൽ നിങ്ങൾക്ക് ആ ബ്രാഞ്ച് കറന്റുകൾ ലഭിക്കും തുടർന്ന് നിങ്ങൾക്ക് ആ ബ്രാഞ്ച് കറന്റുകൾ കാണാനാകും നമുക്ക് അത്തരമൊരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം അതിനിടയിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ പ്ലോട്ട് ഉപേക്ഷിച്ച് സ്ക്രീൻ ക്ലിയർ ചെയ്യുക എന്നതാണ് ഇവിടെ നമുക്ക് പരിഷ്ക്കരണം നടത്താം സോഴ്സ് ഇതുപോലെയാണ് ഞാൻ ഇവിടെയും ഇവിടെയും ഇവിടെയും ഇവിടെയും അവതരിപ്പിച്ചു ഇവിടെ രണ്ടെണ്ണം ആവശ്യമില്ല നമുക്ക് ഇവിടെയും ഒന്ന് ഇവിടെയും ഉണ്ടാകും അതിനാൽ ഇവ രണ്ടും നിങ്ങൾക്ക് ഇവിടെയും ഇവിടെയും ഒഴുകുന്ന വൈദ്യുതധാരയുടെ എല്ലാ വിവരങ്ങളും നൽകും അത് നിങ്ങൾക്ക് ദ്വിതീയ കറന്റ് നൽകും അതിനാൽ 0 വോൾട്ടേജ് മൂല്യമുള്ള മൂന്ന് വോൾട്ടേജ് ഉറവിടങ്ങൾ ഈ സർക്യൂട്ട് സ്കീമാറ്റിക്കിനുള്ളിൽ കാണാം അതിനാൽ ഇവിടെ ഒരു സോഴ്സ് ഒരു സോഴ്സ് ഇവിടെ ഒരു സോഴ്സ് ഇവിടെ ഇടുക എന്നതാണ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ മാറ്റങ്ങൾ ഈ ഉറവിടങ്ങളിലെല്ലാം ഞാൻ 0 വോൾട്ടേജ് മൂല്യം ഇട്ടിട്ടുണ്ട് ഇവ ഇപ്പോൾ നിലവിലുള്ള സെൻസറുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പോസിറ്റീവ് ആയി കറന്റ് ഒഴുകുന്ന തരത്തിൽ ഞാൻ പോസിറ്റീവ് ഇട്ടു പോസിറ്റീവിലേക്ക് ഈ രീതിയിൽ കറന്റ് ഒഴുകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെയും ഈ ദിശയിൽ കറന്റ് ഒഴുകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് പോസിറ്റീവിലേക്കും അതുപോലെ ഡോട്ട് എൻഡിൽ നിന്ന് പോസിറ്റീവിലേക്കും ഒഴുകുന്നു പോസിറ്റീവ് ആയ ഒരു ദിശയിൽ കറന്റ് ഒഴുകുന്ന തരത്തിൽ നിങ്ങൾ ഉറവിടം ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈദ്യുതധാരയുടെ ശരിയായ ദിശ ലഭിക്കും നമ്മൾ മറ്റൊരു മാറ്റവും നൽകിയില്ല ഞങ്ങൾ ഇപ്പോൾ കറന്റ് സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കറന്റ് സെൻസറുകൾ ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ടിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച ലഭിക്കും ഞാൻ ഇത് സംരക്ഷിച്ച് ഒരിക്കൽക്കൂടി സിമുലേഷൻ ചെയ്യട്ടെ അതിനാൽ നമുക്ക് നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാം നെറ്റ് ലിസ്റ്റ് ജനറേറ്റ് ചെയ്തു ഇപ്പോൾ ngSpice ലേക്ക് പോയി സിമുലേഷൻ ഒരിക്കൽ കൂടി പ്രവർത്തിപ്പിക്കും ഇതിന് കുറച്ച് സമയമെടുക്കും അതിനുശേഷം നമുക്ക് പശ്ചാത്തല നിറം വെളുപ്പിലേക്കും മുൻഭാഗത്തെ നിറം കറുപ്പിലേക്കും മാറ്റാം ഇത് കൂടുതൽ അവതരിപ്പിക്കാവുന്ന ഡിസ്പ്ലേയും പിന്നീട് ഡോക്യുമെന്റേഷൻ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന ഒരു ഡിസ്പ്ലേയും ആക്കും ഇപ്പോൾ സിമുലേഷൻ നടക്കുന്ന സമയത്ത് ട്രാൻസ്ഫോർമറിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അത് ഒരു സബ് സർക്യൂട്ട് ആണ് ഇവിടെ പ്രൈമറി ടെൻസിന്റെ എണ്ണം 10 ഉം സെക്കൻഡറി ടെൻസിന്റെ എണ്ണം 20 ഉം പെർമിയൻസ് 100 μ ഉം ആക്കാം ട്രാൻസ്ഫോർമറിലേക്ക് കൈമാറുന്ന പാരാമീറ്ററുകൾ ഇതാണ് Np 10 ഉം Ns 20 ഉം അർത്ഥമാക്കുന്നത് 1 2 ന്റെ ഒരു ടേൺ റേഷ്യോ ഉണ്ടെന്നാണ് ഇപ്പോൾ സിമുലേഷൻ അവസാനിച്ചു വർണ്ണ പശ്ചാത്തലം വെളുപ്പിന് തുല്യമായി സജ്ജീകരിക്കട്ടെ മുൻഭാഗം കറുപ്പിന് തുല്യമാണ് ഇപ്പോൾ ഇവിടെ സ്വിച്ച് കറന്റ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വിച്ച് കറന്റ് ദ്വിതീയ പ്രതിഫലിച്ച ഭാഗത്തിന്റെ പ്രതിഫലിച്ച ഭാഗമല്ലാതെ മറ്റൊന്നുമല്ല കൂടാതെ ഒരു കാന്തിക ഭാഗവും ഉണ്ടായിരിക്കും അതിനാൽ ഈ രണ്ട് ഘടകങ്ങളും ചേർന്ന് സ്വിച്ച് കറന്റ് ഉണ്ടാക്കുന്നു സ്വിച്ച് ഓഫായിരിക്കുന്ന സമയത്ത കാന്തികമാക്കുന്ന ഭാഗം മാത്രമേ ക്ഷയിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ പ്രഭാവം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഞാൻ ഈ കറന്റ് ഈ കറന്റ് ഈ കറന്റ് എന്നിവ കാണും അതായത് Vid യുടെ I ഉം Viq ന്റെ I ഉം Vis ന്റെ I ഉം ആണ് നിങ്ങൾക്ക് Vid ബ്രാഞ്ച് കറന്റ് Vis ബ്രാഞ്ച് കറന്റ് Viq ബ്രാഞ്ച് കറന്റ് എന്നിവ ഇവിടെ കാണാനാകും അതിനാൽ ഡീമാഗ്നെറ്റൈസിംഗ് വിൻഡിംഗിന്റെ വോൾട്ടേജ് Viq സ്വിച്ച് വഴി ഒഴുകുന്ന കറന്റിന്റെയും സെക്കൻഡറി Vis ലൂടെ ഒഴുകുന്ന കറന്റിന്റെയും വിൻഡിംഗ് വഴിതിരിച്ചുവിടുക നമുക്ക് അത് പ്ലോട്ട് ചെയ്യാം ഞാൻ ഇത് വിപുലീകരിക്കട്ടെ ഇവിടെ കാണുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കവർ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാം Viq നീല നിറമാണ് Viq ആണ് സ്വിച്ച് കറന്റ് സ്വിച്ച് കറന്റ് ഇതുപോലെയാണ് നീല ഭാഗമാണ് ക്ലിപ്പ് ചെയ്തത് ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ n തവണ Io ആണ് ഇവിടെ കഴ്സർ ഉള്ള ഈ പോയിന്റ് n മടങ്ങ് Io ആയിരിക്കും ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ Io കറന്റ് ആണ് ഞാൻ ഇൻഡക്റ്റർ കറന്റ് പ്ലോട്ട് ചെയ്താൽ അത് ഇതുപോലെ ഒഴുകും അത് പിന്നീട് ചെയ്യാം ഇത് യഥാർത്ഥത്തിൽ ദ്വിതീയ വൈദ്യുതധാരയാണ് ചുവപ്പ് ഡീമാഗ്നെറ്റൈസിംഗ് കറന്റാണ് ഇത് അളവിൽ വളരെ ചെറുതാണ് യഥാർത്ഥത്തിൽ കാന്തികമാക്കുന്ന ഭാഗം ഇവിടെ ഒരു രേഖീയ തരംഗ രൂപമെടുക്കുകയും ഒരു എക്സ്പോണൻഷ്യൽ രീതിയിൽ പോകുകയും ഇവിടെ നിന്ന് വീണ്ടും രേഖീയമായും മറ്റും പോകുകയും ചെയ്യും അതിനാൽ ഞാൻ n തവണ Io എന്ന് പറഞ്ഞാൽ കാന്തികവൽക്കരണം ഒഴികെ ഇത് ഇവിടെ കൃത്യമായി പൊരുത്തപ്പെടണം കാന്തികമാക്കുന്ന ഒരു ചെറിയ ത്രികോണ വിടവ് ഇവിടെ അവശേഷിക്കുന്നത് പോലെ ഇത് ഇവിടെ ഇതുപോലെ കൂടുതലോ കുറവോ വരുമെന്ന് കാണാം ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ദ്വിതീയ വൈദ്യുതധാര n കൊടുക്കുകയാണ് ഈ കേസിൽ n 2 ആണ് ഇപ്പോൾ അത് പ്ലോട്ട് ചെയ്ത് അത് വികസിപ്പിക്കാൻ അനുവദിക്കുക ഇനി നിങ്ങൾക്ക് നിരീക്ഷിക്കാം കാന്തിക ഭാഗത്തിന്റെ വ്യത്യാസം ഒഴികെ പ്രാഥമികവും ദ്വിതീയവും ഒരേപോലെയാണ് പ്രൈമറി സ്വിച്ച് പ്രതിഫലിക്കുന്ന ഭാഗവും കാന്തികമാക്കുന്ന ഭാഗവും ചേർന്നതാണ് കാന്തികമാക്കുന്ന ഭാഗം യഥാർത്ഥത്തിൽ ഇതിന് തുല്യമായ ഒരു തുകയാണ് അത് ഇവിടെ വന്നു ചേരും തുടർന്ന് ഇത് ക്രമാതീതമായി ക്ഷയിക്കാൻ തുടങ്ങും ഇൻഡക്ടറുകളുടെ തരംഗ രൂപവുമായി താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വശമാണിത് ഞാൻ ഇത് നീക്കം ചെയ്യുകയും ഇൻഡക്റ്റർ തരംഗ രൂപം IL ഇടുകയും ചെയ്യും ഇൻഡക്ടർ തരംഗരൂപമാണ് പച്ച സ്വിച്ച് ഓണായിരിക്കുമ്പോൾ ഈ ഇൻഡക്ടർ തരംഗം രൂപം ദ്വിതീയ വൈദ്യുതധാരയായി ഞങ്ങൾ അളക്കുന്ന അതേ ഭാഗമാണ് യഥാർത്ഥത്തിൽ പ്രൈമറിയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് അതാണ് ഇപ്പോൾ ഇൻഡക്ടർ തരംഗ രൂപത്തിന്റെ ശരാശരി Io ആണെന്നും അത് പ്രൈമറി സ്വിച്ച് കറന്റിന്റെ ഫ്ലാറ്റ് ടോപ്പിനു തത്തുല്യമായി വരുമെന്നും പറയാം അത് Io യുടെ ഇരട്ടിയാണ് പ്രൈമറി സ്വിച്ച് വൈദ്യുതധാരകൾ ഫ്ലാറ്റ് ടോപ്പിനു തുല്യമാണ് തത്തുല്യമായ ഫ്ലാറ്റ് ടോപ്പ് കറന്റ് ഈ സാഹചര്യത്തിൽ n Io ആയിരിക്കും ഇപ്പോൾ സിമുലേഷൻ അടയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ആവർത്തിച്ച് ചില മാറ്റങ്ങൾ വരുത്താനും തരംഗരൂപം പരിശോധിക്കാനും ഉള്ളതാണ് നിങ്ങൾ ദീർഘനേരം കാത്തിരിക്കാൻ ഇഷ്ടപ്പെടാത്ത വിവിധ പോയിന്റുകളിൽ എല്ലാ സിമുലേഷനും പ്രവർത്തിക്കുന്നതുവരെ കാത്തിരിക്കുക എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റേറ്റ് വേരിയബിളുകളുടെ മൂല്യം എടുക്കാം രണ്ട് സ്റ്റേറ്റ് വേരിയബിളുകൾ ഉണ്ട് ഇൻപുട്ടുകളും സ്റ്റേറ്റ് വേരിയബിളുകളും നിർവചിച്ച സിസ്റ്റം കാണാം ഈ സാഹചര്യത്തിൽ ഇൻപുട്ടുകൾ DC ആണ് കൂടാതെ സ്റ്റേറ്റ് വേരിയബിളുകൾ IL Vc എന്നിവയാണ് നമുക്ക് സിമുലേഷന്റെ അവസാനം IL Vc എന്നിവയുടെ മൂല്യം എടുക്കുക അവ പ്രാഥമിക വ്യവസ്ഥകളായി പ്ലഗ് ഇൻ ചെയ്യുക തുടർന്ന് സിമുലേഷൻ വളരെ വേഗത്തിലാകുന്നത് നിങ്ങൾ കാണും ഞാൻ ഇവിടെ നിന്ന് പുറത്തുകടന്നു ഞാൻ പ്ലോട്ട് ചെയ്യും ആദ്യം IL സ്റ്റേറ്റ് വേരിയബിൾ പ്ലോട്ട് ചെയ്യുക നമുക്ക് ഇവിടെ സിമുലേഷന്റെ മൂല്യം അവസാനം എടുക്കാം അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് 1 19444 എന്ന അവസാന മൂല്യത്തിൽ ഒരു പോയിന്റ് മൂല്യങ്ങൾ നിങ്ങൾ കാണും അതിനാൽ ഞാൻ ഇത് ഇൻഡക്റ്റൻസിന്റെ പ്രാരംഭ വ്യവസ്ഥയായി ഉപയോഗിക്കും അതിനാൽ ഇൻഡക്ടൻസ് മില്ലി ഹെൻറിയുടെ മൂല്യത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 19444 ന് തുല്യമായ പ്രാരംഭ അവസ്ഥയും ഞാൻ ഇടും ഇത് പ്രാരംഭ വ്യവസ്ഥകൾ സജ്ജമാക്കും ഇൻഡക്റ്റൻസിന്റെ ഈ മൂല്യത്തിനും സ്റ്റേറ്റ് മൂല്യങ്ങൾക്കും മാത്രമേ ഇത് സാധുതയുള്ളൂ അടുത്തതായി കപ്പാസിറ്റൻസ് പ്ലോട്ടിലെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ മൂല്യം നോക്കാം Vo R ഇപ്പോൾ ഞാൻ ഇവിടെ n ന്റെ മൂല്യം എടുക്കട്ടെ അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഏകദേശം 11 887 ആണ് ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അത് പെട്ടെന്ന് സ്ഥിരത കൈവരിക്കും അതിനാൽ അത് 11 887 ആണ് കപ്പാസിറ്റൻസിന്റെ മൂല്യത്തിലേക്ക് പോയി പ്രാരംഭ അവസ്ഥ 11 8871 ന് തുല്യമായി നൽകുക ഇതിനെ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നു നമുക്ക് ഇത് സേവ് ചെയ്യാം എന്നിട്ട് നമുക്ക് സിമുലേഷൻ അടച്ച് വീണ്ടും ചെയ്യാം സിമുലേഷൻ വീണ്ടും ചെയ്യുന്നതിനുമുമ്പ് സിമുലേഷൻ 10 മില്ലിസെക്കൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല 0 5 മില്ലിസെക്കൻഡ് ആയപ്പോൾ ഞാൻ ഏതാണ്ട് സ്ഥിരതയിൽ എത്തി എന്ന് പറയാം ഇപ്പോൾ അത് വേഗത്തിൽ ആയി ഇത് യഥാർത്ഥത്തിൽ ഇരുപതിലൊന്നാണ് ഞാൻ അത് സേവ് ചെയ്തിട്ടു n നിയന്ത്രിക്കാൻ പോകുകയാണ് ഇനി ഞാൻ നെറ്റ് ലിസ്റ്റ് വീണ്ടും ചെയ്യട്ടെ ഇപ്പോൾ നെറ്റ് ലിസ്റ്റ് ngSpice forward cir ചെയ്ത ശേഷം ഈ സിമുലേഷൻ പ്രവർത്തിപ്പിക്കുക ഇത് വളരെ വേഗത്തിലാണെന്ന് നിങ്ങൾ കാണുന്നു ഞാൻ കറന്റുകൾ പ്ലോട്ട് ചെയ്യും Vid കറന്റ് പ്ലോട്ട് ചെയ്യുന്നു കറന്റ് പ്ലോട്ട് സെക്കൻഡറി കറന്റ് ആക്കി മാറ്റുക ഇപ്പോൾ ഇത് വീണ്ടും കറുപ്പ് പശ്ചാത്തലമാണ് എനിക്ക് ഇത് ഇഷ്ടമല്ല ഞാൻ നിറം വെളുപ്പാക്കി ഫോർഗ്രൌണ്ടിന്റെ നിറം കറുപ്പാക്കി മാറ്റും തരംഗ രൂപങ്ങൾ വീണ്ടും നോക്കുക നിങ്ങൾ ഇതിനകം സ്ഥിരതയുള്ള അവസ്ഥയിലാണെന്ന് കാണാം കൂടാതെ നിങ്ങൾക്ക് Vo R തരംഗ രൂപങ്ങൾ കാണാനാകും ഒരുപക്ഷേ നിങ്ങൾക്ക് Vq സ്വിച്ച് സ്വിച്ചിലുടനീളം വോൾട്ടേജ് എന്നിവ കാണാൻ കഴിയും രസകരമെന്നു പറയട്ടെ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് Vo ആണ് ഇതാണ് സ്വിച്ചിലുടനീളം ഉള്ള വോൾട്ടേജ് ഇപ്പോൾ ഇത് ആദ്യത്തേത് അൽപ്പം ഓഫാണ് കാരണം ഞങ്ങളുടെ പ്രാരംഭ അവസ്ഥ സ്ഥിരത കൈവരിക്കാൻ കുറച്ച് സമയമെടുക്കും സ്ഥിരത കൈവരിക്കാൻ ഒരു സ്വിച്ചിംഗ് സൈക്കിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായ ഔട്ട്പുട്ട് വേവ് ഫോം ലഭിക്കും സ്റ്റേറ്റ് മൂല്യങ്ങൾക്ക് മാറ്റം സംഭവിക്കാതെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്പുട്ട് ലോഡിൽ ധാരാളം മാറ്റങ്ങൾ വരുത്താനും തിരയാനും സാധിക്കും അങ്ങനെ നിങ്ങൾ സിമുലേഷൻ 0 മുതൽ 10 മില്ലിസെക്കൻഡ് വരെ വീണ്ടും പ്രവർത്തിപ്പിക്കുകയും പ്രാരംഭ വ്യവസ്ഥകൾ വീണ്ടും എഡിറ്റ് ചെയ്യുകയും വേണം എന്നാൽ സ്റ്റേറ്റ് മൂല്യങ്ങൾ ഒഴികെയുള്ള മാറ്റങ്ങൾക്കായി സർക്യൂട്ടിന്റെ ആവർത്തിച്ചുള്ള സിമുലേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഈ ട്രിക്ക് വളരെ ഉപയോഗപ്രദമാകും കൂടാതെ നിങ്ങൾക്ക് ഈ രീതിയിൽ ഔട്ട്പുട്ട് ഫലങ്ങൾ വേഗത്തിൽ കാണാൻ കഴിയും അതിനാൽ സർക്യൂട്ട് പര്യവേക്ഷണം ചെയ്യാനും ഈ ഫോർവേഡ് കൺവെർട്ടർ ഓപ്പറേഷനിലേക്കും തരംഗ രൂപങ്ങളിലേക്കും നിങ്ങൾക്ക് കഴിയുന്നത്ര ഉൾക്കാഴ്ച നേടാനും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു